നമ്മൾ ഇപ്പോൾ തുടങ്ങാൻ പോവുന്നത് ഫൈനൈറ്റ് ഡിഫറെൻസ് ടൈം ഡോമെയിൻ മെത്തോഡ് ആണ് നിങ്ങളിൽ പലരും ഇത് മുമ്പ് കെട്ടിട്ടുണ്ടാവാം വാസ്തവത്തിൽ ഇത് കംപ്യൂട്ടേഷണൽ ഇലക്ട്രോമാഗ്നെറ്റിക്സിലെ പ്രധാനപ്പെട്ട മേതോഡുകളിൽ ഒന്നാണ് ഇതാണ് നമ്മൾ ഏകദേശം ചെയ്യാൻ പോവുന്നത് നമുക്ക് ഇതിന്റെ ചരിത്രം ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് 2D ഫോർമുലേഷൻ കൈകാര്യം ചെയ്യണം പിന്നെ ഈ മെതോഡുകളുടെ വിവിധ വശങ്ങൾ അഥവാ ന്യൂമറിക്കൽ ന്യൂമറിക്കൽ വിശകലനത്തിലേക്ക് നോക്കാം നമുക്ക് ആമുഖം തൊട്ട് തുടങ്ങാം അതിന് മുമ്പ് നമുക്ക് കുറച്ചു ചരിത്രത്തിലേക്ക് പോവാം FDTD എന്ത് കൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇത് ഏറ്റവും ലളിതവും വ്യാപകമായി ഉപയോഗിക്കുന്നതും ആണ് ഇലക്ട്രോമാഗ്നെറ്റിക്സ് സമൂഹത്തിൽ ൽ മാത്രമല്ല ഒപ്റ്റിക് സമൂഹത്തിലും ഇത് വിപുലമായി ഉപയോഗിക്കുന്നു ഫോർമുലേഷന്റെ ഉത്ഭവം എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചാൽ1996 ൽ Yee എന്ന ആളുടെ പ്രസിദ്ധമായ ഒരു പേപ്പർ ഉണ്ടായിരുന്നു ഇതാണ് അടിത്തറ ഇട്ടത് വാസ്തവത്തിൽ നിങ്ങൾ ഈ മെത്തേഡ് ലേക്കും Yee ഫോർമുലേറ്റ് ചെയ്ത പേപ്പർ ലേക്കും നോക്കിയാൽ എനിക്ക് ഇത് ചെയ്യാമായിരുന്നു എന്ന് തോന്നും ഇത് അത്രക്കും ലളിതമാണ് FDTD യുടെ പ്രധാന ആശയം ഈ ഒരു സ്ലൈഡിൽ പറയാൻ സാധിക്കും ബാക്കിയൊക്കെ അതിന്റെ വിശദീകരണങ്ങൾ ആണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് കണ്ടത് FDTD യിലേക്ക് വരുന്നതിന്റെ കുറെ മുമ്പ് നമ്മൾ ഇന്റഗ്രൽ ഇക്വേഷൻ മെത്തോഡുകൾ നോക്കിഎന്നിട്ട് നമ്മൾ FEM മെത്തോഡുകൾ കണ്ടു പിന്നെ എന്തിനാണ് മറ്റൊരു മെത്തോഡ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇന്റഗ്രൽ ഇക്വേഷൻ മെത്തേഡിലും ഫൈനൈറ്റ് എലമെന്റ് മെത്തോഡിലും നമ്മൾ സമയം എങ്ങനെ ആണ് കൈകാര്യം ചെയ്തത് നമ്മൾ സമയം കൈകാര്യം ചെയ്തിരുന്നോ ഈ മെത്തോഡുകളിൽ നമ്മൾ എന്താണ് അനുമാനിച്ചത് ഫീൽഡ് ന്റെ ഹാർമണിക്ക് ഫോം ആണ് അനുമാനിച്ചത് എന്ന് പറയാം എനിക്ക് പ്രോബ്ലത്തിൽ ചില ടൈം ഡിപെൻഡൻസ് കൊണ്ട് വരണം എങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ റഡാർ സോഴ്സസ് സിംഗിൾ ഫ്രീക്വൻസി അല്ലെന്ന് കരുതുക പക്ഷെ അത് അൾട്രാ വൈഡ്ബാൻഡ് ആണ് എനിക്ക് IEM അഥവാ FEM ഉപയോഗിക്കണം ഞാൻ എന്ത് ചെയ്യും വിദ്യാർത്ഥി ഓരോ ഫ്രീക്വൻസിക്ക് വേണ്ടിയും സോൾവ് ചെയ്യണം അതെഎന്നിട്ട് ഫോറിയർ ട്രാൻസ്ഫോർമ്സ് ഉപയോഗിച്ച് ഉത്തരം കണ്ട് പിടിക്കാം ശരിക്കും ഇലക്ട്രോമാഗ്നെറ്റിക് സിസ്റ്റം വൈഡ്ബാൻഡ് ആണ് ഒരു പാട് ഫ്രീക്വൻസീസ് അവിടെ ഉണ്ട് IEM ഉം FEM ഉം വളരെ മടുപ്പിക്കുന്നതായി നിങ്ങൾക്ക് കാണാം കാരണം നിങ്ങൾ കമ്പ്യൂട്ടേഷണൽ മാത്രമല്ല ചെയ്യേണ്ടത് അതിനു ശേഷം ഫൌറിയർ ട്രാൻസ്ഫോർമ്സും ചെയ്യണം വളരെ വലിയ ഡാറ്റാ സെറ്റുകളിലുടനീളം അത് മടുപ്പിക്കും അതിനാൽ ഇതിന് പകരം FDTD ടൈം ഡോമൈനിൽ നേരിട്ട് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നു ടൈം ഡോമെയിൻ ഫോർമുലേഷനിൽ ഇത് വളരെ ഉപകാരപ്രധം ആണ് ടൈം ഡോമെയ്നിൽ പ്രോബ്ലം സ്വഭാവികമായും പോസ്റ്റ് ചെയ്യുന്ന ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ ഒരു വേവ് എങ്ങനെ ആണ് പ്രൊപോഗേറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയണം ഒരു വേവ് പ്രൊപോഗേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആണ് വിദ്യാർത്ഥി ഒരു സോഴ്സ് ൽ നിന്നുള്ള ഒരു കാര്യം ഒരു പൾസിൽ നിന്ന്പൾസ് യാത്ര ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ അകത്തേക്ക് പോകുന്നു എന്ന് നിങ്ങൾ കാണും വേവ് പ്രൊപോഗേഷൻ പക്ഷെ വേവ് ഫോം തുടരുന്നത് ആയതിനാൽ നമുക്ക് പൾസ്ഡ് ഫോം വേണം പൾസ് ഫോം റഡാർ പൾസ് പോലെ ഫൈനൈറ്റ് ടൈം ഡ്യൂറേഷൻ ഉണ്ട് ഇത് യഥാർത്ഥത്തിൽ ആയി അപ്പ്രോക്സിമേറ്റ് ചെയ്യാൻ കഴിയില്ല അത് ഒരു കേസ് ആണ് റിയൽ ടൈമിൽ വേവ് പ്രൊപോഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വേറെ ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ വിദ്യാർത്ഥി ട്രാൻസിഎന്റസ് വിദ്യാർത്ഥി ട്രാൻസിഎന്റ് പ്രതിഭാസം അതെ ട്രാൻസിഎന്റ്പ്രതിഭാസം വളരെ പ്രധാനമാണ് ഏറ്റവും ട്രാൻസിയന്റ് ആയ ഇലക്ട്രോമാഗ്നെറ്റിക് പ്രതിഭാസം ഏതാണ് നാച്ചുറൽ പ്രതിഭാസം വിദ്യാർത്ഥി സ്വിച്ചിങ് സ്വിച്ചസ് അതെ അത് ഏറ്റവും ലളിതമായ ഉദാഹരണം ആണ് അവിടെ ചില സർക്യൂട്ട് ഉണ്ടാവും ചില സ്വിച്ചിങ് നടക്കും ഇതാണ് നിങ്ങളുടെ EMI EMC ഗുണനിലവാരമുള്ള ഇലക്ട്രോമാഗ്നെറ്റിക് ഇന്റർഫറൻസ് പ്രോബ്ലെംസ് എന്ന നിലയിൽ അവിടെ സ്വിച്ചിങ് നിരക്കിൽ പ്രവർത്തിക്കുന്ന ചില ഗേറ്റ് ഉണ്ട് സ്വിച്ചിങ് കാരണം ഇത് ചില ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്സ് സൃഷ്ടിക്കും അത് ടൈം ഡോമെയിനിൽ സ്വഭാവികമായി ഉണ്ടാവുന്നതാണ് പ്രാപഞ്ചിക പ്രതിഭാസമായ മിന്നൽ എന്നത് അതിലെ ഫ്രീക്വൻസിക്ക്വിധേയമായി ഇലക്ട്രോമാഗ്നെറ്റിക് എനർജി യുടെ പെട്ടെന്നുള്ള പൊട്ടിത്തെറി യാണ് അത് എല്ലാ ഫ്രീക്വൻസീസിലും ഉണ്ടാവും എന്നാൽ ടൈം ഡോമെയിനിൽവളരെ ചെറിയ പോയിന്റും സമയവും പ്രാദേശികവൽക്കരിക്കപ്പെടുന്നു ടൈം ഡോമെയിൻ ഫോർമുലേഷൻ മികച്ചതായിരിക്കുന്നതിനുള്ള ഒരു ഉദാഹരണം ആയിരിക്കാം അത് പൊതുവായി പറഞ്ഞാൽ സ്വിച്ചിങ് ഒരു പാട് അപ്ലിക്കേഷൻസ് കെടുത്തുന്നതിനാൽ ടൈം ഡോമെയിൻഫ്രീക്വൻസി ഡോമെയിൻ നേക്കാളും കൂടുതൽ നാച്ചുറൽ ഡോമെയിൻ ആണ് അത് കൊണ്ടാണ് മറ്റു രണ്ടിനേക്കാൾ FDTD കൂടുതലായി ഉപയോഗിക്കുന്നത് ഇതും ചെറിയ ഒരു തരത്തിൽ ഉള്ള ബ്രൂട്ട് ഫോഴ്സ് മെത്തോഡ് ആണ് എന്താണ് അടിസ്ഥാന ആശയം എന്ന് നമുക്ക് നോക്കാം ഇന്റഗ്രൽ ഇക്വേഷൻ മെത്തോഡിൽ നിന്ന് വ്യത്യസ്തമായി FDTD മാക്സ്വെൽസ് ഇക്വേഷന്റെ maxwells equation പാർഷിയൽ ഡിഫറെൻഷിയൽ ഇക്വേഷന്റെ അടിസ്ഥാനത്തിൽ ആണ് അതായത് ഇത് ഡിഫറെൻഷിയൽ ഫോമിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്റഗ്രൽ ഫോമിന്റെ അല്ല ഇനി നമുക്ക് അനുമാനത്തിലേക്ക് എത്താം ഒരു മീഡിയത്തിന്റെ ലളിതമായ അനുമാനത്തോടെ നമുക്ക് തുടങ്ങാം തുടർന്നുള്ള മോഡ്യൂളുകളിലേക്ക് പോവുമ്പോൾ നമുക്ക് ഇതിനെ സാമാന്യവൽക്കരിക്കാം ഒരു ലിനീയർ മീഡിയം ഉണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു ലീനിയർ മീഡിയം എന്താണ് നിങ്ങൾ പറഞ്ഞത് ഐസൊട്രോപിക് നെ കുറിച്ചാണ് ഇത് ഒരു ഐസൊട്രോപിക് മീഡിയം ആണ് വിദ്യാർത്ഥി എപ്സിലോൺ എപ്സിലോൺ എന്തിനോട് സമം ആണ് വിദ്യാർത്ഥി ചില എപ്സിലോൺ സ്കേലാർ ആണ് പെർമിറ്റിവിറ്റിയും പെർമിയബിലിറ്റി യും സ്കേലാർസ് ആണ് ഇത് ഒരു നോൺ ഡിസ്പ്പേർസീവ് മീഡിയ ആണെന്നും കൂടി അനുമാനിക്കുക എന്താണ് നോൺ ഡിസ്പേർസീവ് അതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പെർമീറ്റിവിറ്റി ഫ്രീക്വൻസിയെ ആശ്രയിക്കുന്നില്ല നിങ്ങൾ ഈ സവിശേഷത എടുത്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മഴവില്ല് ഉണ്ടാവില്ല അത്കൊണ്ട് നമുക്ക് ശക്തമായ അനുമാനങ്ങൾ ഉണ്ടാക്കാം പക്ഷെ ഇതിനെയൊക്കെ തല്ക്കാലം മറക്കാം കാരണം നമുക്ക് ആദ്യം പ്രധാന ആശയം ആണ് നൽകേണ്ടത് അതിന് ശേഷം നമുക്ക് സാമാന്യവൽക്കരിക്കാം ഈ അനുമാനത്തിന് കീഴിൽ എനിക്ക് എന്റെ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് നെ സ്കേലാർ ടൈംസ് ഇലക്ട്രിക് ഫീൽഡ് ആയി എഴുതാൻ പറ്റും B ഇങ്ങനെ എഴുതാം ഈ അനുമാനം നമുക്ക് പിന്നീട് മാറ്റാം പക്ഷെ ഇതിന് ഒരു പാട് ജോലി ആവശ്യം ആണ് ഇനി ഇതിന്റെ കൂടെ നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷന് maxwells equation എന്ത് സംഭവിച്ചു എന്ന് നോക്കാം ആദ്യത്തെ ഇക്വേഷൻ ഇങ്ങനെയാവും ഇത് കുറച്ചുകൂടി ലളിതമാക്കി ഇങ്ങനെ എഴുതാം കുറച്ചൂടെ ലളിതമാക്കിയാൽ ആവും ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ് വിദ്യാർത്ഥി ഗണിതശാസ്ത്രപരമായി എന്താണ് ഐസോട്രോപിക് ഇത് വളരെ നല്ലൊരു ചോദ്യമാണ് ഭൌതികമായി എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾ ഏത് ദിശയിലേക്ക് പോയാലും വേവ് ന് ഒരേ മീഡിയം തന്നെ അനുഭവപ്പെടും വിദ്യാർത്ഥി അതെ അതായത് ഒരു സ്കേലാർ നമ്പർ ആണ് പക്ഷേ ഇത് ഒരു അനൈസോട്രോപിക് ആണെങ്കിൽ വേവ് ന് വ്യത്യസ്ത പ്രോപ്പർട്റ്റീസ് അനുഭവപ്പെടുംഉദാഹരണം പറഞ്ഞാൽ വ്യത്യസ്ത ദിശയിൽ വ്യത്യസ്ത പ്രൊപോഗേഷൻ സ്പീഡ് അവിടെ ഉള്ള എപ്സിലോൺ ഒരു ടെൻസർ ആയി മാറുന്നു വിദ്യാർത്ഥി എപ്സിലോൺ എന്താണ് ലിനീയർ വ്യത്യാസം എങ്ങനെയാണ് ലീനിയർ വ്യത്യാസം ലിനീയർ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഫീൽഡ് ന്റെ ശക്തിയെ ആശ്രയിക്കുന്നില്ല അത് ഒരു നോൺ ലിനീയർ മീഡിയം ആവും ഉദാഹരണമായി റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലൈറ്റ് ന്റെ ഇന്റന്സിറ്റിയെ ആശ്രയിക്കുന്നുണ്ടോ ഞാൻ ഒരു ഗ്ലാസ് എടുത്താൽ അതിന് ഒരു റെഫ്രാക്റ്റീവ് ഇണ്ടെക്സ് ഉണ്ട് ഒരു ബീമ് അതിലൂടെ അയക്കാം പക്ഷെ ഒപ്റ്റിക്സിൽ അവിടെ നോൺ ലീനിയാരിറ്റിഉണ്ടാവും എവിടെയാണ് റീഫ്രാക്റ്റീവ് ഇണ്ടെക്സ് ഇലക്ട്രിക് ഫീൽഡ് ന്റെ ഉയർന്ന പവർസ് നെ ആശ്രയിക്കാൻ തുടങ്ങുന്നത് അതിനെ നമുക്ക് നോൺ ലീനിയർ മീഡിയം എന്ന് വിളിക്കാം ലീനിയർ അനൈസോട്രോപിക് നെ കുറിച്ചാണ് പറഞ്ഞത് അതായത് എനിക്ക് നെ ഒരു നമ്പർ ആയി എഴുതാം വിദ്യാർത്ഥി ഞാൻ വിചാരിച്ചു ഐസോട്രോപിക് എന്നാൽ നെ പോലെ xy ന്റെ ഫങ്ക്ഷൻ ആയിരിക്കില്ല എന്ന് വിദ്യാർത്ഥി അത് സ്പേസ് ന് അനുസരിച്ചു മാറികൊണ്ടിരിക്കും അത് ഹെറ്ററോജീനസ് അഥവാ ഹോമോജീനസ്ആയിരിക്കും f സ്പേസ് ന്റെ ഒരു ഫങ്ക്ഷൻ ആയി മാറിയാൽ നമുക്ക് അതിനെ ഹെറ്ററോജീനസ് മീഡിയം എന്ന് വിളിക്കാം പക്ഷെ എനിക്ക് ഒരു ഹോമോജീനസ് മീഡിയം എടുക്കാം അത് അനൈസോട്രോപിക് ആണ് ഇതിന്റെ ഏറ്റവും സാദാരണ ആയ ഉപയോഗം ഒപ്റ്റിക്സിൽ ആണ് അതിനെ ബയർഫ്രിൻജന്റ് മീഡിയ എന്ന് പറയുന്നു അവയ്ക്ക് വ്യത്യസ്ത ദിശയിൽ വ്യത്യസ്ത പ്രൊപോഗേഷൻ കോൺസ്റ്റന്റ്സ് ഉണ്ടാവുംബൾക്ക് മീഡിയത്തിൽ ആണെങ്കിലും അത് വരുന്നത് മെറ്റീരിയൽ ന്റെ അറ്റോമിക് ഘടന യിൽ നിന്നാണ് അറ്റോമിക് ഘടന യിൽ ഒരു അസ്സിമെട്രി ഉണ്ടാവും വിദ്യാർത്ഥി ഡിസ്പ്ലേസ്മെന്റിൽ അതായത് ൽ ആയിരിക്കാം അതിന്റെ ഒരു ദിശ അതെ അതിനും സാധ്യത ഉണ്ട് അതായത് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് വ്യത്യാസത ദിശയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നെ ആശ്രയിച്ചിരിക്കും അത് നെ ഒരു ടെൻസർ ആക്കി കണക്കിൽ എടുക്കുന്നു അതെല്ലാം സങ്കീർണ്ണതകൾ നിറഞ്ഞതാണ് ഇനി എനിക്ക് ടൈം ഇൻവാരിയന്റ് നെ കൂടി ഇവിടെ കൂട്ടേണ്ടതുണ്ട് എന്തിനാണ് ഞാൻ അത് കൂട്ടുന്നത്at ൽ നിന്ന് പുറത്തേക്ക് വരണം മീഡിയം സ്റ്റാറ്റിക് ആണെന്ന് ഞാൻ അനുമാനിക്കുന്നു ഇവിടെ ഇപ്പൊ കുറെ അനുമാനങ്ങൾ ആയി നമുക്ക് ഈ ഇക്വേഷൻ വലത് വശത്തു എഴുതാം കുറച്ചു സ്പേസ് കൂടി ഉണ്ടാക്കാം ഇപ്പോൾ നമുക്ക് കിട്ടി ഇതുവരെ ഞാൻ ഡിഫറെൻഷിയൽ ഫോം നെ കുറിച്ചാണ് പറഞ്ഞത് ഇനി ഫൈനൈറ്റ് ഡിഫറെൻസസ് ടൈം ഡോമൈനിൽ ഉപയോഗിക്കുന്ന പ്രധാന ആശയം എന്താണ്ഇത് അടിസ്ഥാനപരമായി ടയിലേർസ് തിയറത്തിലാണ് Taylors theorem ഉണ്ടാക്കിയിരിക്കുന്നത് ടയിലേർസ് തിയറം Taylors theorem നമുക്ക് ഇത് തരുന്നു ഇത് ആദ്യത്തെ ടെർമ് ആണ് അടുത്ത ടെർമ് ആണ് മാക്സ്വെൽസ് ഇക്വേഷനിൽ maxwells equation സ്പേസ് ലും ടൈമിലും വരുന്ന ഡറിവേറ്റിവ്സ് ന്റെ ഓർഡർ എന്താണ് വിദ്യാർത്ഥി ഫസ്റ്റ് ഓർഡർ നമുക്ക് അതിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യാം സിമ്മെട്രി അനുസരിച്ചു ഇത് ആയി മാറും എനിക്ക് ടയിലെർസ് തിയറം Taylors theorem ഉപയോഗിച്ച് ആദ്യത്തെ ഡെറിവേറ്റീവിനു ഒരു അപ്പ്രോക്സിമേഷൻ വേണം ഞാൻ എന്ത് ചെയ്യണം വിദ്യാർത്ഥി കുറക്കണം ഈ രണ്ട് ഇക്വേഷനുകൾ കുറക്കണം എന്ത് സംഭവിക്കും അത് ഇങ്ങനെ ആയി മാറും ഇപ്പോൾ എനിക്ക് ആയി എഴുതാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിലയിരുത്തിയത് ൽ ആണ് ഇപ്പൊൾ ഇത് മനസ്സിലായല്ലോ കിട്ടിയത് എന്താണ് ഇവിടെയുള്ള എറർ ടെർമ് ഇവിടെ ഒരു എറർ ടെർമ് ഉണ്ട് കുറച്ചപ്പോൾ ഞാൻ അത് അവഗണിച്ചു അത് ഏത് ഓർഡറിൽ ആയിരിക്കും വിദ്യാർത്ഥി സ്ക്വയർ ശരിയാണ് ക്യൂബ് ആവില്ല കാരണം ഞാൻ എല്ലാം കൊണ്ട് ഹരിക്കും ഞാൻ ഈ രണ്ട് ഇക്വേഷനുകൾ കുറച്ചിട്ട് കൊണ്ട് ഹരിക്കും രണ്ടാമത്തെ ടെർമ് നോക്കിയാൽഇവ രണ്ടിനും ഉണ്ടാവും ഇത് റദ്ധാക്കപ്പെടും അടുത്ത ടെർമ് ഡെൽറ്റ z ക്യൂബ്ആയിരിക്കും അത് കൊണ്ട് ഹരിച്ചാൽ ഓർഡർ ഉള്ള എറർ ടെർമ് കിട്ടും FDTD യുടെ ഇത്തരത്തിൽ ഉള്ള പ്രധാന ആശയങ്ങൾ ഡെറിവേറ്റീവുകളെ ഡിഫറെൻസസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു എന്തൊക്കെ തരത്തിൽ ഉള്ള ഡിഫറെൻസസ് ആണ് അവ ഫൈനൈറ്റ് ഡിഫറെൻസസ് അതായത് സ്പേസ് ലെ ഫൈനൈറ്റ് മൂല്യങ്ങൾ തമ്മിലുള്ള ഡിഫറെൻസസ് z സ്പേസ് ആവാം z സമയം ആവാം അത് എന്റെ സൌകര്യം പോലെ ഇത് പോലുള്ള ഡിഫറെൻസസ് നു കൊടുക്കുന്ന ടെക്നിക്കൽ പേര് ആണ് ഇത് ഇത് സെന്റർഡ് 2 പോയിന്റ് ഫൈനൈറ്റ് ഡിഫറെൻസ്ആണ് ഇതാണ് അടിസ്ഥാന ആശയം മുഴുവൻ FDTD മെത്തോഡ് വികസിപ്പിക്കാൻ മാക്സ്വെൽസ് ഇക്വേഷനും maxwells equation ടയിലേർസ് തിയറമും Taylors theorem ആവശ്യമാണ് പ്രധാന ആശയങ്ങൾ ഇവയിൽ നിന്നാണ്ഇവിടെ പറഞ്ഞ മറ്റുള്ളവയൊക്കെ ഇതിന്റെ വിശദീകരണങ്ങൾ ആണ് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ ചില ഡിസ്ക്രിടൈസേഷനോട് കൂടി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഞാൻ ഡിസ്ക്രിടൈസേഷൻപകുതി ആക്കിയാൽ എറർ ന് എന്ത് സംഭവിക്കും വിദ്യാർത്ഥി വർദ്ധിക്കും എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഞാൻ ഈ ഫൈനൈറ്റ് ഡിഫറെൻസസ് റീപ്ലേസ് ചെയ്ത് സോൾവ് ചെയ്തു ഇപ്പൊ എനിക്ക് കുറച്ചൂടെ കൃത്യമായ സൊല്യൂഷൻ വേണം ഞാൻ നെ കുറച്ചു ആക്കിയാൽ എന്റെ എറർ ന് എന്ത് സംഭവിക്കും കൂടുമോ കുറയുമോ വിദ്യാർത്ഥി കുറയും 4 ന്റെ ഘടകതിനാൽ കുറയുന്നു അതാണ് നിങ്ങൾ ഈ സെന്റർഡ് 2 പോയിന്റ് ഡിഫറെൻസ് ഉപയോഗിക്കാനുള്ള കാരണം നിങ്ങൾ ആദ്യത്തെ ഇക്വേഷനിലേക്ക് നോക്കിയാൽ അത് മാത്രം നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവാറ്റീവ് first order derivative ന് ഒരു അപ്രോക്സിമാഷൻ തരുന്നു ഇത് എനിക്ക് ഇങ്ങനെ എഴുതാം ഇത് എനിക്ക് ചെയ്യാൻ കഴിയും എറർ ടെർമ് ന് എന്ത് സംഭവിക്കും വിദ്യാർത്ഥി ഓർഡർ ഡെൽറ്റ z ശരിയാണ് നിങ്ങൾക്ക്മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ഇത് ഇവിടെ എഴുതാം എനിക്ക് ആദ്യത്തെ ഇക്വേഷൻ മാത്രം ഉപയോഗിച്ച് നെ അപ്രോക്സിമേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം എന്താണ് അടുത്തത് നമുക്ക് ഈ ഇവിടെ വെക്കാം ഞാൻ ടെർമ് നെ പുനർക്രമീകരിക്കുന്നു ഇവിടെ ഉള്ള മറ്റു ടെർമ്സ് എന്തൊക്കെയാണ് ന്റെ ഓർഡർ ഇപ്പോൾ ഈ എക്സ്പ്രഷൻ രണ്ട് വശത്തും എന്തിനെ കൊണ്ട് ഹരിക്കാം വിദ്യാർത്ഥി refer time1856 ഓർഡർ ഡെൽ q അല്ല ഞാനീ ആദ്യത്തെ ഇക്വേഷൻ ഒന്നൂടെ എഴുതിയതാണ് ആദ്യത്തെ ഇക്വേഷനിൽ സെക്കൻഡ് ഓർഡർ ടെർ മ്സ് ഉണ്ട് ഞാനതിനെ അവഗണിച്ചതാണ് ഞാൻ ഈ ഇക്വേഷനെ കൊണ്ട് ഹരിച്ചാൽ എറർ ഓർഡർ ആയി മാറുന്നു ഞാൻ എന്റെ ഡിസ്ക്രിടൈസേഷൻ 2 ന്റെ ഘടകത്തിനാൽ കുറച്ചാൽ എന്റെ എററും 2 ന്റെ ഘടകം കുറയും മറ്റുള്ളവയെക്കാളും സെന്റർഡ് 2 പോയിന്റ് ഡിഫറെൻസ് ആണ് കൂടുതൽ നല്ലത് കാരണം ഡിസ്ക്രിടൈസേഷൻ പകുതി ആക്കിയാൽ എറർ 4 ന്റെ ഘടകം കുറയും വിദ്യാർത്ഥി എറർ എറർ ടെർമിനെകുറിച്ചാണ് ഞാൻ പറയുന്നത് എറർ എങ്ങനെ ആണ് ഡിസ്ക്രിടൈസേഷന്റെ ഫങ്ക്ഷൻ ആയി പെരുമാറുന്നത് വിദ്യാർത്ഥി എറർ ഡെൽറ്റ z സ്ക്വയർ ന്റെ ആണ് സെന്റർഡ് ഡിഫറെൻസിൽ എറർ ന്റെ ഓർഡർ ആണ് ഞാൻ ഇവിടെ 1 സൈഡ് ഡിഫറെൻസിൽ ആണ് എഴുതിയത് വിദ്യാർത്ഥി എന്ത് കൊണ്ടാണ് ഡെൽറ്റ z 2 കിട്ടിയത് ഡെൽറ്റ z2 കൊണ്ട് ഹരിക്കണം ഞാൻ അപ്പ്രോക്സിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വിദ്യാർത്ഥി അതെ ഈ ഇക്വേഷൻ തൊട്ട് തുടങ്ങാം ടയിലേർസ് തിയറം Taylors theorem ലളിതമാണ് ഞാൻ ഇവിടെ ഒന്നൂടെ എഴുതുകയാണ് ഒരു വശത്തേക്ക് കൊണ്ട് വരുന്നു മറ്റുള്ളതൊക്കെ മറ്റേ വശത്തും വിദ്യാർത്ഥി ok ഇപ്പൊൾ ഞാൻ കൊണ്ട് ഹരിക്കുകയാണ് കമ്പ്യൂട്ടേഷണൽ ഡൊമൈന്റെ ഉള്ളിൽ എല്ലായിടത്തും ഞാൻ സെന്റർഡ് 2 പോയിന്റ് ഡിഫറൻസ് ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ കംപ്യൂറ്റേഷണൽ ഡോമെയിനിന്റെ അവസാനത്തിൽ ചിലപ്പോൾ എനിക്ക് 1 സൈഡഡ് ഡിഫറെൻസസ് ഉപയോഗിക്കേണ്ടി വരും കാരണം അവിടെ പുറത്ത് പോയിന്റ് ഇല്ല ഇതൊക്കെ തന്നിരിക്കുന്ന ഡിഫറെന്റ്ഷിയൽ ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ട ചില വിട്ട് വീഴ്ചകളും തന്ത്രങ്ങളും ആണ് ഇവിടെ മാക്സ്വെൽസ് ഇക്വേഷനെ maxwells equation കുറിച്ച് രഹസ്യം ഒന്നുമില്ല ഏതൊരു പാർഷിയൽ ഡിഫറൻഷിയൽ ഇക്വേഷൻസ് ന്റെ സിസ്റ്റത്തിലും ഈ സാങ്കേതികത എനിക്ക് ഉപയോഗിക്കാം മാക്സ്വെൽസ് ഇക്വേഷന് maxwells equation പ്രത്യേകത ഒന്നുമില്ല ഇതാണ് അടിസ്ഥാന ആശയം മാക്സ്വെൽസ് ഇക്വേഷൻസ് ഫൈൻനൈറ്റ് ഡിഫറെൻസസ് maxwells equations for finite difference അതെ വിദ്യാർത്ഥി നിങ്ങൾ E യെ ഇവയെ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണോ സ്പേസിലും ടൈമിലും എവിടെയൊക്കെ ഞാൻ ഡെറിവാറ്റീവ് കണ്ടാലും ഞാൻ അതിനെ ഫൈനൈറ്റ് ഡിഫറെൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യും അതാണ് തത്വം